അവസാനത്തെ അദ്ധ്യായത്തിൽ നമ്മൾ ഇൻപുട് ബയ്സ് കറന്റ് നെ പറ്റി കണ്ടു ഈ ക്ലാസ്സിൽ നമുക്ക് ഇൻപുട് ഓഫസറ്റ് കറന്റ്നെ പറ്റി നോക്കാം ഇൻപുട് ബയസ് കറന്റ്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു നോൺ ഇൻവെർട്ടിങ് ടെർമിനേലിലെ വോൾടേജ് ആയ V കണ്ടുപിടിക്കാനുള്ള പട്ടികയും ഞാൻ കാണിച്ചുതന്നു എന്നിട്ട് നമ്മൾ ഇൻവെർട്ടിങ് ടെർമിനേലിലെ V വോൾടേജ്നെയും കണ്ടു എങ്ങനെ നമുക്ക് Ib ഉം Ib ഉം കിട്ടും എന്നും ഇൻപുട് ബയസ് കറന്റ് ആയ IbIb 2 നെ1യും നമ്മൾ മനസിലാക്കി ഈ ക്ലാസ്സിൽ എന്താണ് ഇൻപുട് ഓഫസറ്റ് കറന്റ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നണ്ടെങ്കിൽ ഇൻപുട്ട് ബയാസ് കറണ്ട്ന്റെ അതേ സർക്യൂട്ട് തന്നെയാണ് ഇൻപുട്ട് ഓഫ് സെറ്റ് കറണ്ട് നും അതുകൊണ്ട് ഈ സർക്യൂട്ടിൽ നമുക്ക് രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ട് Vcc Vcc ഇതാണ് 220 k ഇൻവെർട്ടിങ്ങും നോൺ ഇൻവെർട്ടിങ്ങും നിങ്ങൾ ഓർമ്മിക്കുന്നു ഉണ്ടെങ്കിൽ ഇതാണ് ആ സർക്യൂട്ട് ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് അളക്കാനും ഇതേ സർക്യൂട്ട് തന്നെയാണ് ആവശ്യം എന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് സർക്യൂട്ട് എന്നുവച്ചാൽ ഇൻപുട്ട് ബയാസ് കരണ്ടിൽ നമ്മൾ കൂട്ടുകയും 2 കൊണ്ട് ഹരിക്കുകയും ആണ് ചെയ്തത് ഇവിടെ നമുക്ക് രണ്ട് കറണ്ട് കൾ Ib1 ന്റെയും Ib2ന്റെയും വ്യത്യാസം ആണ് വേണ്ടത് അതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കരണ്ടി നെ Ios എന്നാണ് പ്രതിനിധീകരിക്കുന്നത് ഈ ഇൻപുട്ട് ഓഫ് സെറ്റ് കറന്റ് എന്ന് പറയുന്നത് Ib1 ന്യുനം Ib2 ആണ് ഈ കറന്റ് ഇന്റെ വില വളരെ ചെറുതാണ് ഏകദേശം 20 മുതൽ 60 മില്ലി ആമ്പിയർ വരെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് പൂജ്യം ആണെന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ ആണ് ഈ ചെറിയ കറണ്ട് അളക്കുന്നത് എന്താണ് ഇൻപുട്ട് വോൾടേജ് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് പൂജ്യമാണ് ഇപ്പോൾ ഇതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് അളക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സന്ദർഭം അതായത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ Ib1 ന്റെയും Ib2 ന്റെയും വ്യത്യാസമാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വ്യത്യാസമാണ് അതിന്റെ വില 20 മുതൽ 60 ആമ്പിയർ ആയിരിക്കും നമ്മൾ DC കരണ്ട് 2 ആമ്പിയർ ഇൻപുട്ട് വോൾട്ടേജിൽ കൊടുത്താൽ ഔട്ടിൽ നമുക്ക് പൂജ്യം വോൾട്ടേജ് കിട്ടും തുല്യമായ കറണ്ട് കൊടുത്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് പൂജ്യമായിരിക്കും എന്നാൽ കുറച്ചു കൂടി പ്രാക്ടിക്കൽ ആവുകയാണെങ്കിൽ പൂജ്യത്തിനു പകരം ചെറിയൊരു വിലയായിരിക്കും കിട്ടുന്നത് അതായത് ഞാൻ തുല്യമായ കറണ്ട് ആണ് ഇൻവെർട്ടങ്ങിലും നോൺ ഇൻവെർട്ടങ്ങിലും നൽകുന്നത് എങ്കിൽ പോലും ഗ്രൌണ്ട് ചെയ്യുന്നത് കാരണം ഔട്ട്പുട്ടിൽ ചെറിയ ഒരു വോൾട്ടേജ് ലഭിക്കും ഈ ഔട്ട്പുട് വോൾട്ടേജ് നെ നമുക്ക് അളക്കാൻ പറ്റും അതായത് പൂജ്യം ഔട്ട്പുട്ട് വോൾട്ടേജ് ആകണമെങ്കിൽ എന്റെ ഇൻപുട്ട് വോൾട്ടേജ്കൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം എങ്കിലും വേണം ഈ വ്യത്യാസം മറ്റൊന്നുമല്ല അതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഇതിൽ നിന്നും നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്തെന്നാൽ തുല്യമായ ഡിസി വോൾട്ടേജ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ പൂജ്യമായിരിക്കും ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ഇൻ പുട്ടിന് ചെറിയൊരു തോതിൽ വ്യത്യാസം വരുത്താം ഇൻപുട്ട് ഇന്ന് ചെറിയ ഒരു രീതിയിൽ വ്യത്യാസം വരുത്തിയാലും ഔട്ട്പുട്ട് എന്തായിരിക്കും പൂജ്യമായിരിക്കും ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്തിനാണ് നമുക്ക് പൂജ്യം വേണ്ടുന്നത് എന്തെന്നാൽ നമ്മൾ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ഒരേ കറണ്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താണ് പൂജ്യം ആണ് അല്ലേ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓരോതവണ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേഷനിൽ ആംപ്ലിഫയർനേ പരീക്ഷണത്തിനു മുൻപായി ബാലൻസ് ചെയ്യുക ഇനി നമുക്ക് ബ്രെഡ് ബോർഡിൽ ഇവയൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നും വോൾട്ടേജ് എങ്ങനെ അളക്കാം എന്നു നോക്കാം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടാണ് നിങ്ങൾ ഓർമ്മിക്കുന്നു ഉണ്ടെങ്കിൽ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് ബയസ് കരണ്ട് നെപ്പറ്റി കണ്ടു ഇവിടെ നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ന്നെയാണ് നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്നാൽ Ib1 Ib2 നോൺ ഇൻവെർട്ടിങ് ടെർമിനലിലെ ഇൻപുട്ട് കറന്റ് ന്യൂനം ഇൻവെർട്ടിങ് ടെർമിനലിലെ കറണ്ട് എങ്ങനെയാണ് ഇൻപുട്ട് ബയാസ് കറണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്കറിയാം നമുക്ക് അത് ഒന്നുകൂടി നോക്കാം ഇവിടെ ഒരു ബ്രെഡ് ബോർഡ് ഉണ്ട് അപ്പോ ഇവിടെ എന്താണ് ഉള്ളത് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ടല്ലേ അതാണ് നിങ്ങളുടെ ഓപ്പറേഷൻ അൽ ആംപ്ലിഫയർ പിന്നെ 2 റസിസ്റ്റർസും ഉണ്ടല്ലേ 220k ഇപ്പോൾ നമ്മൾ ബയാസ് വോൾട്ടേജ് ഓപ്പറേഷൻ ആംപ്ലിഫയർലേക്ക് കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ബയാസ് ചെയ്തു കൊടുക്കുന്നത് 15 പിൻ ഏഴിനും Vcc 15 പിൻ നാലിനും Vcc ഇനി നമുക്ക് ഇൻവെർട്ടിങ് ടെർമിനലിലെയും നോൺ ഇൻവെർട്ടിങ് ടെർമിനലിലെയും വോൾട്ടേജ് അളക്കാം നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളതുപോലെ തന്നെ ഒരു മൾട്ടിമീറ്റർ ഉണ്ട് നമുക്ക് ഈ മൾട്ടിമീറ്റർ വെച്ച് ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആയിട്ടുണ്ട് നമുക്ക് ഈ മൾട്ടിമീറ്റർ ലെ വിലകൾ നോക്കാം ഇൻവെർട്ടിങ് ടെർമിനലിലെ വോൾട്ടേജ് 6 മില്ലി വോൾട്ട് ഉം 6 1 മില്ലി വോൾട്ടും ഇതൊരു ഇൻവെർട്ടിങ് ടെർമിനേലാണ് ഇനി നോൺ ഇൻവെർട്ടിങ് നോക്കാം നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നിങ്ങളുടെ കൈകൾ സ്റ്റേബിൾ ആയിരിക്കണം 3 മില്യവോൾട് 6 1 മില്യവോൾട് അങ്ങനെ രണ്ട് വിലകൾ ലഭിക്കും അല്ലേ അപ്പോൾ നമ്മളെ പട്ടികയിൽ നമുക്ക് 6 1 ഉം 6 3 ഉം എഴുതാം ഈ വിലകൾ വച്ച് നമുക്ക് Ib ഉം Ib ഉം കണ്ടുപിടിക്കാം Ib ഉം Ib ഉം കിട്ടി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം ലഭിക്കും അങ്ങനെ നമുക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ലഭിക്കും ഒരുദാഹരണം പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹാർദിക് എനിക്ക് വില കിട്ടുന്നില്ല കാരണം എനിക്ക് ഓപ്പറേഷനിൽ ആംപ്ലിഫയർ ഇല്ല എനിക്ക് ഡിസി പവർ സപ്ലൈ ഇല്ല മൾട്ടിമീറ്റർ പോലെ ഒരു അളക്കുന്ന ഉപകരണം ഇല്ല എങ്കിൽ എനിക്ക് ഇന്പുട്ട് ഓഫ് സെറ്റ് കറണ്ട് കിട്ടുമോ എനിക്ക് ഇൻപുട്ട് ബയാസ് കരണ്ട് കണ്ടു പിടിക്കാൻ പറ്റുമോ തിയററ്റിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം സ്ക്രീനിലേക്ക് നോക്കൂ ഇതാണ് ഉദാഹരണം ഒരു ദിഫ്ഫെരെന്റ്റ്യൽ ആംപ്ലിഫയറിന്റെ എമിറ്റർ ക്യാപ്പ്ൾഡ് ട്രാൻസിസ്റ്റർ കളുടെ ബയ്സ് കറന്റ് 22 ഉം 18 ഉം മൈക്രോ ampere ആണെങ്കിൽ നമുക്ക് രണ്ട് വിലകൾ കണ്ടുപിടിക്കാൻ ഉണ്ട് അതായത് ഇൻപുട്ട് ബയാസ് കരണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടും Ib1 18 Ampere എന്നും Ib2 22 Ampere എന്നും എടുത്താൽ ഇൻപുട്ട് ബയാസ് കറണ്ടും ഓഫ്സെറ്റ് കറണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇത് എളുപ്പമല്ലേ കാരണം നമുക്ക് സമവാക്യം അറിയാം അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം അതായത് ഇൻപുട്ട് ബയാർ കറണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ഇൻപുട്ട് ബയാസ് കരണ്ട് മറ്റൊന്നുമില്ല IbmodIb1 Ib2 2 18222 ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് സമവാക്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ Ib Ib1 Ib2 ഇതിൽ നമ്മൾ വില കൊടുക്കുകയാണെങ്കിൽ പതിനെട്ടും 22 കൊടുക്കുകയാണെങ്കിൽ ഉത്തരം 4 വരും ഒരിക്കലും വരുന്ന ഉത്തരം 4 എഴുതരുത് കാരണം നമ്മൾ ഇതിന്റെ മോഡ് എടുക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് വില കിട്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് വിലകൾ വീട്ടിൽ വച്ച് വേണമെങ്കിലും കണ്ടുപിടിക്കാം ഏതെങ്കിലും ഒരു ചോദ്യം എടുത്തോളൂ എന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കൂ നിങ്ങൾക്ക് പറ്റുന്നത്ര ചോദ്യങ്ങൾ ചെയ്യൂ എന്നിട്ട് പരീക്ഷണശാലയിൽ ലേക്ക് പോവുക ഒരു മൾട്ടി മീറ്ററും ഡിസി സപ്ലൈയും വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് പോലും ഒരു ലാബ് ആക്കാം അപ്പോൾ നിങ്ങൾക്ക് കോളേജിലേക്കു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല എവിടെ നിന്ന് വേണമെങ്കിലും ഏതു സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം പഠനം എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നതല് അതുപോലെ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പുറത്തുപോയി ഇന്റർനെറ്റ് എടുത്ത് നിങ്ങൾക് പഠിക്കാൻ പറ്റും അതുപോലെ NPTEL കോഴ്സുകൾ എടുത്ത് പഠിക്കാൻ പറ്റും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് നിങ്ങൾ തന്നെ സ്വയം ഉത്തരം കണ്ടെത്താൻ നോക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടും ഇൻപുട്ട് ബയാസ് കരണ്ട് അളക്കുന്നത് ഇനി അടുത്ത പാഠത്തിൽ അടുത്ത പരീക്ഷണം കാണാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സവിശേഷതകൾ നമുക്ക് കാണാം